ട്രേഡ് മാർക്കിൻറെ വിഷയങ്ങൾ എന്തൊക്കെ ആകാം എന്നുള്ളതു സംബന്ധിച്ച് ട്രേഡ് മാർക്ക് ആക്ടിൽ കൊടുത്തിട്ടുണ്ട് ഒന്നാമതായി ട്രേഡ് മാർക്ക് ആക്ടിൽ കൊടുത്തിരിക്കുന്ന ട്രേഡ് മാർക്കിൻറെ നിർവചനത്തോട് ഒത്തുപോകുന്നതായിരിക്കണം അതായത് ട്രേഡ് മാർക്ക് ആക്ടിൻറെ നിർവചനത്തിൽ കൊടുത്തിരിക്കുന്ന 3 നിബന്ധനകളെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കണം ആദ്യത്തെ കണ്ടീഷൻ അത് ഒരു അടയാളത്തോട് അതായത് മാർക്കിനോട് ബന്ധപ്പെട്ടതായിരിക്കണം രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അത് ചിത്രങ്ങളാൽ പ്രതിനിധാനം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞു വച്ചത് പോലെ ചിത്രങ്ങളാൽ പ്രതിനിധാനം ചെയ്യണമെങ്കിൽ അത് പേപ്പറിൽ വരയ്ക്കാൻ സാധിക്കുന്നതായിരിക്കണം ചിത്രം ഒരു ദ്വിമാന ചിത്രം ആയിരിക്കുകയും വേണം മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വേർതിരിക്കാൻ സാധിക്കണം എന്നതാണ് ട്രേഡ് മാർക്ക് എന്നുപറയുന്നത് ഒരു ചിത്രമോ അടയാളമോ ആയിരിക്കണം ചിത്രമോ അടയാളമോ പേപ്പറിൽ വരയ്ക്കാനും ദ്വിമാന ചിത്രമായി കാണിക്കുവാനും സാധിക്കണം മാർക്കുകൊണ്ട് ഒരാളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും അയാളുടെ എതിരാളിയുടെ ഉൽപ്പന്നങ്ങളിൽ നിന്നും സേവനങ്ങളിൽ നിന്നും വേർതിരിച്ചറിയാൻ സാധിക്കുന്നതായിരിക്കണം ഒരു സൈൻ അഥവാ അടയാളം എന്നതിൻറെ കാഴ്ചപ്പാട് വളരെ വിശാലമാണ് എന്നാൽ അതിരുകളില്ലാത്തതല്ല ആക്ട് ട്രേഡ് മാർക്കിനെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ് ട്രേഡ് മാർക്ക് ഒരു ഡിവൈസോ ബ്രാൻഡോ ഹെഡിംങോ ലേബലോ ടിക്കറ്റോ പേരോ സിഗ്നേച്ചറോ അക്ഷരമോ വാക്കോ നമ്പറോ ഉൽപ്പന്നങ്ങളുടെ ആകൃതിയോ പാക്കേജിങോ കളറുകളുടെ സംയുക്തമോ അല്ലെങ്കിൽ ഇതിൽ ഏതിൻറെയെങ്കിലും ഒക്കെ സംയുക്തമോ ആകാം യഥാർത്ഥത്തിൽ ആക്ടിൽ മാർക്കിന് വളരെ വിശാലമായ ഒരു നിർവചനം ആണുള്ളത് ഷേപ്പുകൾ ട്രേഡ് മാർക്കായി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആക്ടിൽ ചില നിബന്ധനകളുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഉൽപ്പന്നം വിൽക്കുന്നതിന് അതിൻറെ ട്രേഡ് മാർക്കായി എടുക്കുന്നത് ആ ഉൽപ്പന്നത്തിൻറെ തന്നെ ആകൃതി ആണെങ്കിൽ അത് അനുവദിക്കുകയില്ല ഉദാഹരണത്തിന് ഒരാൾക്ക് മാമ്പഴ ജ്യൂസ് വിൽക്കുവാൻ മാമ്പഴത്തിൻറെ തന്നെ ആകൃതിയുള്ള ഒരു പാക്കേജ് അഥവാ പാത്രം തെരഞ്ഞെടുക്കുക സാധ്യമല്ല ചെറുനാരങ്ങയുടെ ജ്യൂസ് ചെറുനാരങ്ങയുടെ അതേ ഷേപ്പിലുള്ള ഒരു പാത്രത്തിൽ വിൽക്കുന്നതും ആയി ബന്ധപ്പെട്ട ഒരു കേസ് നിലവിലുണ്ടായിരുന്നു യുണൈറ്റഡ് കിങ്ഡത്തിൽ നിലവിലിരുന്ന ജെഫ് ലെമൺ കേസ് പ്രകൃതിദത്തമായ ഏതെങ്കിലും ഉൽപ്പന്നങ്ങളുടെ അതേ മാതൃകയിൽ മാതൃക ഉണ്ടാക്കി പ്രോപ്പർട്ടി റൈറ്റ് സമ്പാദിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല മാമ്പഴ ജ്യൂസ് മാങ്ങയുടെ ആകൃതിയിലുള്ള പാത്രത്തിൽ വിൽക്കുവാൻ സാധ്യമല്ല ചില ഷേപ്പുകൾ സാങ്കേതികമായി അവയുടെ ഫലസിദ്ധിയെക്കുറിച്ചുള്ള ഉറപ്പ് ലഭിക്കാതെ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുകയില്ല സ്പോർട്സ് ഷൂ സാധാരണ വായു നിയമശാസ്ത്രം അനുസരിച്ചാണ് രൂപകൽപ്പന ചെയ്യുന്നത് അത് അങ്ങനെ ചെയ്യുമ്പോൾ വളരെ കൃത്യതയാർന്ന ഡ്രാഗ് കൊയെഫിഷ്യന്റ് ഷേപ്പുകൾ നിർമ്മിച്ച് നല്ല ഫലസിദ്ധിയുള്ള ഷൂ ഉണ്ടാക്കുവാൻ സാധിക്കുന്നു എല്ലാ ചെരിപ്പുകൾക്കും പൊതുവായുള്ള ഷേപ്പുകൾ ട്രേഡ് മാർക്കായി രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുകയില്ല ഷേപ്പുകൾ ഉൽപ്പന്നങ്ങൾക്ക് ഗണ്യമായ മൂല്യം പ്രദാനം ചെയ്യുന്നു ഏതെങ്കിലും ഒരു ഷേപ്പ് ഉൽപ്പന്നത്തിന് ഗണ്യമായ മൂല്യം പ്രദാനം ചെയ്യുന്നുവെങ്കിൽ ആ ഷേപ്പ് ട്രേഡ് മാർക്കിൻറെ വിഷയമാക്കാൻ പറ്റില്ല ഉദാഹരണത്തിന് ദ്രവരൂപത്തിലുള്ള പദാർത്ഥങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കുപ്പികൾ എല്ലാം തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വളരെ വിസ്താരം കുറഞ്ഞ വായ ഭാഗത്തു കൂടിയാണ് ഉള്ളിലുള്ള ദ്രാവകം പകരുമ്പോൾ ഒരു നിയന്ത്രണം ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് അങ്ങനെ രൂപകല്പന ചെയ്യുന്നത് ഈ മാതൃക അല്ലെങ്കിൽ ഷേപ്പ് എല്ലാ കുപ്പികൾക്കും പൊതുവായതുകൊണ്ട് ഇത്തരം മാതൃകകൾ ട്രേഡ് മാർക്കിൻറെ വിഷയം ആകാൻ പാടില്ല ഇതൊക്കെയാണ് ഷേപ്പുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉള്ള നിബന്ധനകൾ അല്ലെങ്കിൽ പരിമിതികൾ മാർക്കുകൾ ചിത്രങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യാൻ സാധിക്കണം വേർഡ് മാർക്കുകൾ എഴുതുകയാണ് ചെയ്യുന്നത് എന്നാൽ ഫിഗറേറ്റീവ് മാർക്കുകൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത് സാമ്പ്രദായികമല്ലാത്ത മാർക്കുകൾ പ്രതിനിധാനം ചെയ്യുക എന്നത് ഒരു പ്രശ്നം പിടിച്ച കാര്യമാണ് നമ്മൾ സൌണ്ട് മാർക്കുകളുടെ കാര്യത്തിൽ കണ്ടു അതുപോലെതന്നെ ടേസ്റ്റ് മാർക്കുകളും സ്മെൽ മാർക്കുകളും അവയെ നമ്മൾ മനസ്സിലാക്കുന്നതിൻറെ പ്രത്യേകത കൊണ്ട് തന്നെ ചിത്രങ്ങളിൽ ആലേഖനം ചെയ്യുക അല്ലെങ്കിൽ ചിത്രങ്ങളാൽ പ്രതിനിധാനം ചെയ്യപ്പെടുക എന്നത് അത്ര എളുപ്പമല്ല ഇക്കാരണം കൊണ്ടു തന്നെ സാമ്പ്രദായികമല്ലാത്ത മാർക്കുകൾ അതായത് ടേസ്റ്റ് മാർക്കുകളും സ്മെൽ മാർക്കുകളും സൌണ്ട് മാർക്കുകളും ഇന്ത്യൻ ട്രേഡ് മാർക്ക് ആക്ട് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുവാൻ സാധ്യമല്ല ട്രേഡ് മാർക്കുകൾ വ്യതിരിക്തം ആയിരിക്കണം അവയ്ക്ക് ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥാപനത്തിൻറെേയോ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മറ്റൊരാളുടേതിൽ നിന്നും തിരിച്ചറിയാൻ സാധിക്കണം ഈ വ്യതിരിക്തത തന്നെ പലതരത്തിൽ ആകാം ഈ വ്യതിരിക്തത ഒരുപക്ഷേ വസ്തുനിഷ്ഠപരം അല്ലാത്തതാകാം ഉദാഹരണത്തിന് ഗൂഗിൾ ഗൂഗിൾ എന്ന വാക്ക് ഒരു ആർബിട്രറി അഥവാ വസ്തുനിഷ്ഠമല്ലാത്ത വാക്കാണ് ഗൂഗിൾ എന്ന വാക്കിന് അതിൽ തന്നെ ഒരു അർത്ഥവുമില്ല അപ്പോൾ ഗൂഗിൾ എന്ന വാക്കിൻറെ വ്യതിരിക്തത കൈവരുന്നത് ദീർഘകാലം വീണ്ടും വീണ്ടും ഗൂഗിൾ എന്ന് ഉപയോഗിക്കുന്നതിലൂടെ ആണ് വ്യതിരിക്തത ഒരുപക്ഷേ ഫാൻസിഫുൾ ആകാം അതായത് ആലങ്കാരികം ഒരു സ്ഥാപനം അതിൻറെ വ്യാപാരവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു വാക്ക് ട്രേഡ് മാർക്കായി എടുത്തെന്ന് വരാം ഉദാഹരണത്തിന് ആപ്പിൾ കമ്പനി ട്രേഡ് മാർക്ക് ആയി തെരഞ്ഞെടുത്തിരിക്കുന്നത് ആപ്പിളാണ് കമ്പനി കച്ചവടം ചെയ്യുന്നതാകട്ടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളും ഹാർഡ്വെയറും ആണ് അപ്പോൾ ഇതൊരു ആലങ്കാരികമായ ട്രേഡ് മാർക്കാണ് അതിൻറെ വ്യതിരിക്തത കൈവരിക്കുന്നത് ദീർഘകാലത്തെ അതിൻറെ ഉപയോഗത്തിലൂടെയാണ് ഈ വ്യതിരിക്തത സജസ്റ്റീവും ആകാം അതായത് സൂചകം ആകാം എന്ന് ഉദാഹരണത്തിന് ഷുഗർഫ്രീ എന്നൊരു ട്രേഡ് മാർക്കുണ്ട് ഈ മാർക്കുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒരു കേസും ഉണ്ടായിരുന്നു ഷുഗർ ഫ്രീ എന്ന വാക്കിൻറെ അർത്ഥം മധുരമില്ലാത്തത് എന്നാണ് എന്നാൽ ഈ ട്രേഡ് മാർക്കിലൂടെ അവർ വിൽക്കുന്നത് മധുരങ്ങളാണുതാനും സുക്രാലോസ് അസ്പാർട്ടമെ സ്റ്റീവിയ ഇതൊക്കെയാണ് ആ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഇവയെല്ലാംതന്നെ മധുരത്തിന് വേണ്ടിയുള്ളതാണെങ്കിലും ഷുഗർഫ്രീ എന്ന ട്രേഡ് മാർക്കിലാണ് അവർ അതിനെ മാർക്കറ്റ് ചെയ്യുന്നത് ഇവിടെ ഷുഗർഫ്രീ എന്നത് ഒരു സജസ്റ്റീവ് ട്രേഡ് മാർക്കാണ് അതിൻറെ വ്യതിരിക്തത അത് കൈവരിച്ചത് ദീർഘകാലത്തെ ഉപയോഗത്തിലൂടെയാണ് മാർക്കുകളുടെ ദീർഘകാലത്തെ ഉപയോഗം നിമിത്തം കുറെ കാലം കഴിയുമ്പോൾ രണ്ടാമതൊരു അർത്ഥം കൈവരിക്കാറുണ്ട് ഉപഭോക്താക്കൾ ട്രേഡ് മാർക്കിനെ അതിൻറെ ഉറവിടത്തിൻറെ സൂചനയായി കരുതാൻ തുടങ്ങുമ്പോഴാണ് രണ്ടാമത്തെ അർത്ഥം കൈ വരുന്നത് ട്രേഡ് മാർക്ക് കാണുമ്പോൾ ഉപഭോക്താക്കളുടെ മനസ്സിൽ ഏറ്റവും ആദ്യം കടന്നുവരുന്നത് ഉൽപ്പന്നങ്ങൾ അല്ല മറിച്ച് അതിൻറെ ഉടമസ്ഥനെയാണ് ഉദാഹരണത്തിന് സാധാരണഗതിയിൽ മെട്രോ പോളീസ് അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ എന്നീ വാക്കുകളെ സൂചിപ്പിക്കാനുള്ള ചുരുക്കെഴുത്തായി ഉപയോഗിച്ചിരുന്ന മെട്രോ എന്ന വാക്ക് ഇന്ന് പലതരത്തിലുള്ള വ്യത്യാസപ്പെട്ട വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന പല സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് മെട്രോ എന്ന വാക്ക് ഹോട്ടൽ വ്യവസായത്തിൽ ഉപയോഗിക്കുന്നുണ്ട് മെട്രോ എന്ന വാക്ക് ഹോസ്പിറ്റൽ വ്യവസായത്തിൽ ഉപയോഗിക്കുന്നുണ്ട് മെട്രോ എന്ന വാക്ക് പാദരക്ഷകളുടെ വ്യവസായത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നിലവിലുള്ള ഒരു മാർക്ക് മറ്റു വ്യവസായങ്ങൾക്ക് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഈ വാക്കിൻറെ യഥാർത്ഥ ഉടമസ്ഥൻ അവകാശപ്പെടുന്നത് ദീർഘകാലത്തെ ഉപയോഗം കൊണ്ട് ആ വാക്കിന് രണ്ടാമതൊരർത്ഥം കൈവന്നിരിക്കുന്നു എന്നാണ് വ്യതിരിക്തത എന്ന സ്വഭാവസവിശേഷത പല മാർഗ്ഗങ്ങളിലൂടെ വരാം വ്യതിരിക്തത എന്ന സ്വഭാവം സൂചനയിലൂടെ വരാം നമ്മളതിനെ സജസ്റ്റീവ് എന്ന് വിളിക്കുന്നു അതിന് ഒരു ഉൽപ്പന്നത്തിൻറെയോ സേവനത്തിൻറെയോ സ്വഭാവത്തെ ദ്യോതിപ്പിക്കാൻ അഥവാ സൂചിപ്പിക്കാൻ സാധിക്കും ഉദാഹരണത്തിന് സിറ്റി ബാങ്ക് സിറ്റി ബാങ്ക് എന്ന് പറയുമ്പോൾ ആ ബാങ്കിൻറെ പ്രവർത്തനങ്ങൾ സിറ്റി ബാങ്ക് ആണ് എന്ന് ഒരു സൂചന തരുന്നു സിറ്റി ബാങ്ക് എന്ന് നമ്മൾ ഒരുമിച്ച് എഴുതുമ്പോൾ ആ വാക്ക് അതിൽ തന്നെ തനിമ ഉള്ളതാണ് അത് ഒരു വ്യതിരിക്തത പ്രദാനം ചെയ്യുന്നു ഈ വ്യതിരിക്തത വിവരണത്തിലൂടെ വരാം നമ്മൾ അതിനെ ഡിസ്ക്രിപ്റ്റീവ് എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് കൊക്കോകോള അവരുടെ ഉൽപ്പന്നത്തെ വിവരിക്കുന്നു കോള എന്ന വാക്ക് തന്നെ അവരുടെ ഉൽപ്പന്നത്തെ വിവരിക്കാൻ പോരുന്നതാണ് ഉൽപ്പന്നത്തെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് പേരിൻറെ ഒരു ഭാഗമാകുന്നു അത് ഉൽപ്പന്നത്തെ വ്യതിരിക്തമാക്കുകയും ചെയ്യുന്നു ഈ വ്യതിരിക്തത കുറെ കാലം കൊണ്ട് സാധാരണമായിത്തീരുന്ന അവസ്ഥയുണ്ടാകാം ഉദാഹരണത്തിന് സെറോക്സ് അതൊരു ട്രേഡ് മാർക്ക് ആണെങ്കിലും സാധാരണ ഉപയോഗിക്കുന്നത് ഫോട്ടോ കോപ്പി എന്ന വാക്കിന് പകരമായിട്ടാണ് അതുപോലെതന്നെ തെർമോസ് ഒരു ട്രേഡ് മാർക്ക് ആണെങ്കിലും അത് ഫ്ളാസ്ക്കിനെ സൂചിപ്പിക്കുന്നു തെർമോസ് എന്ന് പറഞ്ഞാൽ ഫ്ലാസ്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ട്രേഡ് മാർക്ക് ആക്കാൻ സാധിക്കാത്തത് എന്താണ് ഒരു പ്രവർത്തിയെ ട്രേഡ്മാർക്കിൻറെ സബ്ജക്ട് മാറ്ററാക്കുവാൻ സാധിക്കുകയില്ല മാർക്കുകൾ ഫംഗ്ഷണൽ ആണെങ്കിൽ അവയെ സംരക്ഷിക്കുക സാധ്യമല്ല ഒരു പാദരക്ഷ മനുഷ്യൻറെ കാൽപാദങ്ങളുടെ രൂപത്തിൽ ആയിരിക്കണം പാദരക്ഷയുടെ മാതൃകയെ ട്രേഡ് മാർക്കാക്കാൻ സാധിക്കുകയില്ല കാരണം അതിനോട് ചേർന്ന് ഒരു പ്രവർത്തി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു താഴ്ത്തിക്കെട്ടുന്ന മാർക്കുകൾ ട്രേഡ് മാർക്കുകളായി ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുകയില്ല അത്തരം മാർക്കുകൾക്ക് ട്രേഡ് മാർക്കിൻറെ പ്രൊട്ടക്ഷൻ ലഭിക്കുകയുമില്ല നിലനിൽക്കുന്ന ട്രേഡ്മാർക്കുകൾക്ക് ഏതെങ്കിലും തരത്തിൽ കോട്ടം വരുത്തുന്ന മാർക്കുകൾ അവയുടെ റെപ്യൂട്ടേഷന് ദോഷകരമായി വരാവുന്ന മാർക്കുകൾ ഇത്തരം മാർക്കുകൾക്ക് പ്രൊട്ടക്ഷൻ അനുവദിക്കാറില്ല സദാചാര വിരുദ്ധമായതോ മറ്റുള്ളവർക്ക് ഉതപ്പിന് കാരണമാകുന്നതോ ആയ മാർക്കുകൾക്ക് ട്രേഡ് മാർക്ക് ലോ അനുസരിച്ച് പ്രൊട്ടക്ഷൻ ലഭിക്കുകയില്ല വഞ്ചിക്കപ്പെടുന്ന രീതിയിലുള്ള സമാനതയിലേക്ക് നയിക്കുന്ന മാർക്കുകൾ മാർക്കുകളോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും തെറ്റായി വിവരിക്കുന്ന മാർക്കുകൾ നിലനിൽക്കുന്ന മാർക്കുകളോട് ഏറ്റുമുട്ടുകയും ഉപഭോക്താക്കളുടെ ഉള്ളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്യുന്ന മാർക്കുകൾ ഇത്തരം മാർക്കുകൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുകയില്ല വഞ്ചനാപരമോ തെറ്റിദ്ധാരണാജനകമോ ആയ ചിത്രീകരണമോ പ്രാതിനിധ്യമോ നൽകുന്ന മാർക്കുകളെ ട്രേഡ് മാർക്കായി അംഗീകരിക്കുകയില്ല ഉദാഹരണത്തിന് ആരെങ്കിലും ഒരു മരുന്നുല്പന്നവുമായി വരികയും അതിനെ കാൻസർ ക്യുർ എന്ന് വിളിക്കുകയും കാൻസർ ക്യുർ എന്ന വാക്ക് ട്രേഡ് മാർക്കായി കിട്ടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്താൽ അത് അനുവദിക്കുകയില്ല കാരണം അതൊരു തെറ്റായ റെപ്രസേൻറ്റേഷൻ ആയിരിക്കും ട്രേഡ് മാർക്ക് ആക്ട് വെൽ നോൺ മാർക്സ് എന്ന ഒരു ആശയം കൂടി അവതരിപ്പിക്കുന്നുണ്ട് ഏതെങ്കിലുമൊരു ഉൽപ്പന്നത്തിൻറേയോ സേവനത്തിന്റേയോ നിരന്തരമായതും ദൂര വ്യാപകവുമായ ഉപയോഗംമൂലം പൊതുജനത്തിലെ വലിയൊരു വിഭാഗത്തിനിടയിൽ വളരെയധികം അറിയപ്പെടുന്ന ഒരു മാർക്കാണ് വെൽ നോൺ മാർക്ക് ഈ മാർക്ക് വേറെ ഏതെങ്കിലും ഒരു പാർട്ടി അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിൽക്കുന്നതായി ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യത്തെ പാർട്ടിയും ഈ പാർട്ടിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന ഒരു ധാരണയാണ് സാധാരണ ആളുകൾക്ക് ലഭിക്കുക നമ്മൾ നേരത്തെ കണ്ടു ടാറ്റാ പോലുള്ള ബിസിനസ് ഭീമന്മാർക്ക് വെൽ നോൺ മാർക്കുണ്ട് എന്ന് അതുകൊണ്ട് മേഖല ഏത് എന്ന വ്യത്യാസമില്ലാതെ ആ ഗ്രൂപ്പ് പ്രവേശിക്കുന്ന അല്ലെങ്കിൽ ആരംഭിക്കുന്ന ഓരോ വ്യാപാര സ്ഥാപനങ്ങളും ടാറ്റാ വ്യാപാര സമുച്ചയത്തിൽ നിന്നാണ് വരുന്നത് എന്ന ഒരു തോന്നലാണ് നമ്മിൽ ഉളവാക്കുക വെൽ നോൺ മാർക്കാണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള മാർഗം എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുന്ന പൊതുജനത്തിലെ വലിയൊരു വിഭാഗത്തിന് അതിനെപ്പറ്റി അറിവുണ്ടോ എന്നുള്ളതാണ് അത്തരം സേവനങ്ങൾ വ്യാപാരികളും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു